മൊഡ്യൂൾ 1 യൂണിറ്റ് 3 ലേക്ക് സ്വാഗതം ഇത് പഠനം വിലയിരുത്തൽ നിർദ്ദേശം ഇവയുമായി ബന്ധപ്പെട്ടതാണ് മുമ്പത്തെ യൂണിറ്റിൽ വിദ്യാഭ്യാസം അദ്ധ്യാപനം എന്നീ പദങ്ങൾ നാം പരിശോധിച്ചു ഞങ്ങൾ നിരീക്ഷിച്ചതുപോലെ വിദ്യാഭ്യാസം മനഃപ്പൂർവമുള്ള പഠനമാണ് സാധാരണയായി അത് സമൂഹത്തിലെ ചില ഏജൻസികൾ തീരുമാനിക്കുന്നു ഒരു തൊഴിലിൽ ആവശ്യമുള്ളതും അഭികാമ്യവുമായതായി കണക്കാക്കപ്പെടുന്ന അറിവ് മൂല്യങ്ങൾ കഴിവുകൾ എന്നിവ ഒരു തലമുറയിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിനെ വിദ്യാഭ്യാസത്തിൽ ശരിക്കും സൂചിപ്പിക്കുന്നു ഇത് സാധാരണയായി ചില നിയുക്ത സ്ഥാപനങ്ങളിലൂടെയാണ് ചെയ്യുന്നത് അത് ഒരു സ്കൂളോ കോളേജോ സർവ്വകലാശാലയോ ആകാം അദ്ധ്യാപകൻ്റെ ചില ഇടപെടലുകളിലൂടെ പഠനം സുഗമമാക്കുന്നു ഈ ഇടപെടലുകൾ പലതും ആകാം പക്ഷേ ഈ ഇടപെടലിൻ്റെ തിരഞ്ഞെടുപ്പ് അദ്ധ്യാപകൻ്റെ മുൻഗണനകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അല്ലെങ്കിൽ വിഷയത്തിന്റെ സ്വഭാവവും സന്ദർഭവും അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിനാൽ അദ്ധ്യാപകന് കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലുള്ള വൈവിധ്യമാർന്ന ഇടപെടലുകൾ ഉണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ഇപ്പോഴത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ രണ്ട് ഫലങ്ങൾ ഉണ്ട് ഒന്ന് പരിചിതമായ വാക്കുകളായ "പഠനം" "വിലയിരുത്തൽ" "നിർദ്ദേശം" എന്നിവ പരിചയപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നു കൂടാതെ "നല്ല പഠനം" സുഗമമാക്കുന്നതിൽ വിലയിരുത്തലിൻ്റെ കേന്ദ്രീകരണം മനസ്സിലാക്കാനും ശ്രമിക്കുന്നു ഞങ്ങൾ കൈവരിക്കാൻ ശ്രമിക്കുന്ന രണ്ട് പ്രധാന ഫലങ്ങൾ ഇവയാണ് ഇപ്പോൾ പഠനത്തിലേക്ക് വന്ന് നിരവധി നിലപാടുകളിൽ നിന്ന് പഠനം നിർവചിക്കാം ആദ്യത്തേത് പഠനത്തിന് മുമ്പ് ഞങ്ങൾക്ക് ഇല്ലാത്ത ചില പുതിയ അറിവുകളും കഴിവുകളും മൂല്യങ്ങളും നേടിയെടുക്കുക എന്നതാണ് പഠനം ഈ മേഖലകളിലൊന്നും പഠനം ഒരു മാറ്റവും വരുത്തിയില്ലെങ്കിൽ അതിനർത്ഥം പഠനം നടന്നിട്ടില്ല എന്നാണ് അതിനാൽ പഠനാനുഭവത്തിന് മുമ്പ് ഞങ്ങൾക്ക് ഇല്ലാത്ത പുതിയ അറിവും കഴിവുകളും മൂല്യങ്ങളും നേടിയെടുക്കുകയാണ് പഠനം പഠനത്തെ കാണാനുള്ള മറ്റൊരു മാർഗ്ഗം അനുഭവത്തിൻ്റെ ഫലമായി സംഭവിക്കുന്ന മാറ്റത്തിലേക്ക് നയിക്കുന്നതും മെച്ചപ്പെട്ട പ്രകടനത്തിനും ഭാവി പഠനത്തിനും സാധ്യത വർദ്ധിപ്പിക്കുന്നതുമായ ഒരു പ്രക്രിയയാണ് പഠനം അതിനാൽ നമ്മൾ പറയുന്നത് പഠിക്കുന്നത് ചില മാറ്റങ്ങളിലേക്ക് നയിക്കുന്ന ഒരു പ്രക്രിയയാണ് ജീനുകൾ ന്യൂറോ ഫിസിയോളജി ശാരീരിക അവസ്ഥ സാമൂഹിക അനുഭവം മനഃശാസ്ത്രപരമായ ഘടകങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള അനേകം സ്വാധീനങ്ങളുടെ സങ്കീർണ്ണമായ ഇടപെടലാണ് പഠനം വ്യത്യസ്ത വ്യക്തികൾക്ക് ഈ ഘടകങ്ങൾ വ്യത്യസ്തമായതിനാൽ ഒരു സംഘടിത പഠനാനുഭവത്തിൽ ഒരു പ്രത്യേക പഠനത്തിലെ എല്ലാ പഠിതാക്കൾക്കും പഠനം കൃത്യമായി സമാനമല്ല നാം പഠിക്കുമ്പോൾ എന്തുസംഭവിക്കുന്നു ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറിക്കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ നമ്മളുടെ പുതിയ അറിവ് ഇതിനകം തന്നെ എന്തെങ്കിലുമൊക്കെ അറിയാവുന്നതിൻ്റെ മുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ചിലപ്പോൾ നമ്മൾ പഠിച്ചതെല്ലാം നമ്മളിൽ ഒരു മാറ്റമുണ്ടാക്കാം ചിലപ്പോൾ നമ്മളിൽ ഒരു മാറ്റവും വരുത്തിയേക്കില്ല അതിനാൽ ഇപ്പോഴും മൊത്തത്തിൽ നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ വിവരങ്ങൾ കൈവശം വയ്ക്കുന്നത് പഠനത്തിൻ്റെ തുല്യാർത്ഥകമായ പദമല്ല പഠനത്തിൻ്റെ പര്യായമല്ലാത്ത വിവരങ്ങൾ നിങ്ങൾ ശേഖരിക്കുകയാണെങ്കിൽ അതിനർത്ഥം വിവരങ്ങളുടെ അധീനത ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പുനർനിർമ്മിക്കാം പക്ഷേ അത് പുതിയ അറിവ് നേടുന്നതിലേക്ക് അതു വിവർത്തനം ചെയ്തേക്കില്ല അതിനാൽ കേവലം വിവരങ്ങൾ കൈവശം വയ്ക്കുന്നത് പഠനത്തിന്റെ പര്യായമല്ല കുറേ ന്യൂറോസയൻസിൻ്റെ കാഴ്ചപ്പാടിൽ തലച്ചോറിലെ ഉചിതമായതും അഭിലഷണീയവുമായ ചില സിനാപ്സുകൾ ആവർത്തിച്ചുള്ള ഉപയോഗത്തിലൂടെ പഠനം സുസ്ഥിരമാക്കുന്നു അതിനാൽ എല്ലാ പഠനങ്ങളും തലച്ചോറിൽ നടക്കുന്നു അതിനാൽ ഫിസിയോളജിക്കലായി സംഭവിക്കുന്നത് ആവർത്തിച്ചുള്ള ഉപയോഗം കാരണം ചില സിനാപ്സുകൾ സ്ഥിരത കൈവരിക്കുകയും അവ ഒരു പരിധിവരെ അർദ്ധ സ്ഥിരമാവുകയും ചെയ്യുന്നു അതിനാൽ അഭികാമ്യമായ സിനാപ്സുകളെ സ്ഥിരപ്പെടുത്തുന്നതിലൂടെ പഠനത്തെ വ്യാഖ്യാനിക്കാം ചില മോശം ശീലങ്ങൾ നേടുന്നതിലേക്ക് നയിക്കുന്ന ചില അഭികാമ്യമല്ലാത്ത സിനാപ്സുകളും നിങ്ങൾക്ക് സ്ഥിരപ്പെടുത്താം ന്യൂറോ സയൻസിൽ നിന്ന് വീണ്ടും നോക്കുന്നതിനുള്ള മറ്റൊരു മാർഗ്ഗം പഠനം തലച്ചോറിലെ പുതിയ പാറ്റേണുകളോ രൂപീകരണമോ അടിച്ചേൽപ്പിക്കുന്നു നാഡീകോശങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഇലക്ട്രോഫിസിയോളജിക്കൽ റെക്കോർഡിംഗുകൾ വഴി ഈ പ്രതിഭാസം സ്ഥിരീകരിച്ചു അതിനാൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലഭ്യമായ പരീക്ഷണാത്മക രീതികളിലൂടെ തലച്ചോറിലെ രൂപീകരണത്തിൻ്റെ പുതിയ രീതികൾ നിരീക്ഷിക്കപ്പെടുന്നു ഇപ്പോൾ ഒരു കൂട്ടം പഠന സിദ്ധാന്തങ്ങളുണ്ട് എന്നിട്ടും പുതിയ സിദ്ധാന്തങ്ങൾ പ്രചാരത്തിലുണ്ട് നമുക്കറിയാവുന്ന ഏറ്റവും പഴയത് "പെരുമാറ്റശാസ്ത്രം" ആണ് തലച്ചോറിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ലെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കാരണം ഈ പ്രത്യേക കാഴ്ചപ്പാട് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നിലവിൽ വന്നു കണ്ടീഷനിംഗിലൂടെ പുതിയ സ്വഭാവം നേടിയെടുക്കലാണ് പഠനമെന്ന് പെരുമാറ്റശാസ്ത്ര വീക്ഷണരീതി പ്രസ്താവിച്ചു അതിനർത്ഥം ആളുകൾക്ക് ചില പ്രചോദനങ്ങൾ നൽകുന്നു ഏതെങ്കിലും വിധത്തിൽ ഞങ്ങൾക്ക് ആളുകളെ അഭിലഷണീയമായ രീതിയിൽ പ്രതികരിപ്പിക്കാൻ കഴിയും ഇതാണ് പെരുമാറ്റവാദം പതിറ്റാണ്ടുകളായി ഇതിനെക്കുറിച്ച് വളരെയധികം വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്നാൽ നിരവധി സമ്പ്രദായങ്ങൾ പെരുമാറ്റരീതിയിൽ നിന്ന് ഇപ്പോഴും പ്രാഥമിക വിദ്യാഭ്യാസ രീതിയിലും സർവ്വകലാശാലാ വിദ്യാഭ്യാസ രീതിയിലും ഉപയോഗത്തിലുണ്ട് മറ്റൊരു സിദ്ധാന്തം "കോഗ്നിറ്റിവിസം" ആണ് 1940 കളിൽ തലച്ചോറിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസിലാക്കാൻ കഴിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർ തങ്ങളുടെ വൈജ്ഞാനിക കഴിവുകളുടെ തുടർച്ചയായ വികാസത്തിലൂടെ അറിവും അർത്ഥവും സൃഷ്ടിക്കുന്നതിലൂടെ പഠിക്കുന്നുവെന്ന് തോന്നിച്ചു ഈ വൈജ്ഞാനിക കഴിവുകളിൽ ഞങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കും അവയിൽ തിരിച്ചറിയൽ ഓർമ്മപ്പെടുത്തൽ മനസ്സിലാക്കൽ ആപ്ലിക്കേഷൻ പ്രതിഫലനം വിശകലനം വിലയിരുത്തൽ സൃഷ്ടിക്കൽ എന്നിവ ഉൾപ്പെടുന്നു ഇവയെല്ലാം ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന വൈജ്ഞാനിക പ്രവർത്തനങ്ങളാണ് അതിനാൽ ഈ പരിജ്ഞാന പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ പഠനം മനസ്സിലാക്കാൻ കഴിയും അടുത്തതിനെ ഞങ്ങൾ "സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം" എന്ന് വിളിക്കുന്നു കൺസ്ട്രക്റ്റിവിസം എന്നാൽ പഠിക്കുമ്പോൾ ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതിനാൽ ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് നിരന്തരം പുനർനിർമ്മിക്കുകയാണ് എന്നാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം പറയുന്നത് സാമൂഹിക ഇടപെടലുകളിലൂടെ നമുക്ക് അത് കൂടുതൽ നന്നായി ചെയ്യാൻ കഴിയും വളരെയധികം ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് കൂടാതെ ചില സ്കൂളുകൾ അവരുടെ മുഴുവൻ സ്കൂൾ പഠനത്തെയും സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിലൂടെ കർശനമായി പിന്തുടരുന്നു ഡിസ്കവറി ലേണിംഗ് ഹാൻഡ്സ് ഓൺ ലേണിംഗ് എക്സ്പീരിയൻഷ്യൽ കൊളാബറേറ്റീവ് പ്രോജക്റ്റ് ബേസ്ഡ് ടാസ്ക് ബേസ്ഡ് ലേണിംഗ് തുടങ്ങിയ സാങ്കേതിക വിദ്യകളെല്ലാം ഈ കൺസ്ട്രക്റ്റിവിസ സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇപ്പോൾ താരതമ്യേന പുതുതായ ഇതിനെ "ഹ്യൂട്ടഗോഗി" എന്ന് വിളിക്കുന്നു ഇത് സ്വയം നിശ്ചയിക്കപ്പെട്ട സമഗ്രമായ പഠനത്തെക്കുറിച്ചുള്ള പഠനമാണ് അതിന്റെ അർത്ഥമെന്താണ് ഔപചാരികവും അനൌപചാരികവുമായ സാഹചര്യങ്ങളിൽ പഠനത്തിനും പഠിപ്പിക്കലിനുമുള്ള പഠിതാവിനെ കേന്ദ്രീകരിച്ചുള്ള സമീപനമാണ് സ്വയം നിർണ്ണയിക്കപ്പെടുന്ന പഠനത്തിന്റെ ഒരു രൂപമാണ് ഇത് ഇപ്പോൾ ഇത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിന് കീഴിൽ സാങ്കേതികമായി ഉൾക്കൊള്ളാൻ കഴിയും എന്നാൽ ഇവിടെ ഇത് എടുത്തുകാണിക്കുന്നു അതിനർത്ഥം അറിവ് നേടുന്നതിനേക്കാൾ പ്രധാനമായ ഒരു വൈദഗ്ധ്യമാണ് എങ്ങനെ പഠിക്കണമെന്ന് അറിയുക എന്നത് ഇവിടെയാണ് പ്രോഗ്രാം ഫലങ്ങളിലൊന്നിൽ ഇത് പ്രതിഫലിക്കുന്നത് അതായത് എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിന്റെ ബിരുദധാരിക്ക് സ്വയം പഠിക്കാൻ അറിയണം നമ്മുടെ കമ്മ്യൂണിറ്റികൾ ജോലിസ്ഥലങ്ങൾ സാങ്കേതികവിദ്യകൾ എന്നിവയുടെ ഘടനയിൽ വരുന്ന നിരന്തരമായ മാറ്റം കാരണം നിങ്ങൾക്ക് സ്ഥിരമായി തുടരാൻ കഴിയില്ല മാത്രമല്ല നിങ്ങൾ നൈസ്സർഗ്ഗികമായി നിരന്തരം പഠിക്കുകയും വേണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഹ്യൂട്ടാഗോജി ഒരു ആധിപത്യമായി മാറുന്നതും പ്രധാനമാകുന്നതും അങ്ങനെയാണ് അതുപോലെ "പാരാഗോഗി"യും സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ഭാഗമായി കണക്കാക്കാം വിവരസാങ്കേതികവിദ്യയിൽ നിന്ന് പ്രയോജനം നേടുന്ന അവരുടെ പഠന സാഹചര്യങ്ങളും അനുഭവങ്ങളും പങ്കിടുന്ന സമപ്രായക്കാർ മൊത്തത്തിൽ വിദ്യാഭ്യാസ അന്തരീക്ഷം വിശകലനം ചെയ്യുന്നതും ചേർന്നു സൃഷ്ടിക്കുന്നതും പാരാഗോജി കൈകാര്യം ചെയ്യുന്നതിനാൽ ഇത് വീണ്ടും എടുത്തുകാണിക്കുന്നു അതാണ് നിങ്ങൾ സാമൂഹിക ഇടപെടലുകളിലൂടെ നന്നായി പഠിക്കുന്നത് അത്തരത്തിലുള്ള പഠന സാഹചര്യങ്ങൾ ആസൂത്രണം ചെയ്യണം ഒപ്പം വിവരസാങ്കേതികവിദ്യയുടെ പങ്കിനാൽ സമപ്രായക്കാർ എല്ലായ്പ്പോഴും മുഖാമുഖം ആയിരിക്കേണ്ടതില്ല എന്നതാണ് അവർക്ക് ഇന്റർനെറ്റിലൂടെ പരസ്പരം സംവദിക്കാൻ കഴിയും മറ്റൊരു പഠന സിദ്ധാന്തം "കണക്റ്റിവിസം" ആണ് വിവരസാങ്കേതിക വിദ്യയുടെ ഇന്നത്തെ വളർച്ചയുടെ ഫലമാണിത് അരാജകത്വം ശൃംഖല സങ്കീർണ്ണത സ്വയം രൂപീകരണ സിദ്ധാന്തങ്ങൾ എന്നിവ സമഗ്രപഠനം ചെയ്ത തത്ത്വങ്ങളുടെ സംയോജനമാണ് കണക്റ്റിവിസം അറിവ് ഒരു തമോവൃതപരിതസ്ഥിതിയിൽ വ്യാപിച്ച രീതിയിൽ നിലനിൽക്കുന്നുവെന്ന് ഞങ്ങൾ കണക്കാക്കുന്നു അതിനാൽ നിങ്ങൾ പര്യവേക്ഷണം തുടരുമ്പോൾ എന്തു സംഭവിക്കും ഉദാഹരണത്തിന് ഒരു പഠിതാവ് എന്ന നിലയിൽ കണക്റ്റിവിസത്തിന്റെ ഈ ആശയം എന്താണെന്നും നിങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗപ്രദമാകുമെന്നും നിങ്ങൾക്ക് സ്വയം പര്യവേക്ഷണം ചെയ്യാനാകും നിങ്ങൾ പര്യവേക്ഷണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന വിവിധ കുറിപ്പുകളിൽ എന്നതിനർത്ഥം വിവിധ വെബ്സൈറ്റുകളിൽ ധാരാളം അറിവുകൾ ലഭ്യമാണ് നിങ്ങൾ അത് എങ്ങനെ താണ്ടുന്നു എന്നതിനെ ആശ്രയിച്ച് നിങ്ങളുടെ പഠനം വ്യത്യാസപ്പെടും അതിനാൽ ആ പരിധിവരെ നിങ്ങളുടെ കണക്റ്റിവിസം നിങ്ങൾക്ക് ഒരു നോൺലീനിയർ ആയി കണക്കാക്കാവുന്ന ഒരു പഠന മാർഗ്ഗമാണ് അല്ലെങ്കിൽ അത് കൃത്യമായി മുൻകൂട്ടി തീരുമാനിക്കാൻ കഴിയില്ല തന്നിരിക്കുന്ന പാഠപുസ്തകം വായിക്കുന്നത് പോലെ നിങ്ങൾ പഠിക്കേണ്ട രീതിയാണിത് അതിനാൽ ഇവ ചില പഠന സിദ്ധാന്തങ്ങളാണ് ഒരാൾക്ക് കുറച്ചുകൂടി പട്ടികപ്പെടുത്താൻ കഴിയും പക്ഷേ ഇവയാണ് ഇന്നത്തെ പ്രബലമായ പഠന സിദ്ധാന്തങ്ങൾ ഇപ്പോൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞർ പഠന പ്രക്രിയയുടെ തത്വങ്ങളും പഠന തത്വങ്ങളും ഉൾക്കൊള്ളുന്നു ഉദാഹരണം "പരസ്പരബന്ധം" ആണ് അങ്ങനെയാണ് രണ്ട് വിഷയങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് അതിനാൽ ഒരു വിഷയം അടുത്ത വിഷയത്തിന് ഒരു മുൻവ്യവസ്ഥയായി മാറുന്നു അത് മനസിലാക്കാൻ വളരെ ലളിതമായ കാര്യമാണ് മറ്റൊന്ന് "ആവർത്തനം" ആവർത്തനത്തിലൂടെ നമുക്കറിയാവുന്നതുപോലെ നമുക്ക് നന്നായി മനസ്സിലാക്കാനോ നന്നായി പഠിക്കാനോ കഴിയും അത് ചില പ്രശ്നങ്ങൾ നിങ്ങൾ ആവർത്തിച്ചു പരിശീലിക്കുന്നു ആവർത്തിച്ച് നിങ്ങൾ എന്തെങ്കിലും വായിക്കുകയും അത് സമാനമായി "ശക്തിപ്പെടുത്തൽ" നടത്തുകയും ചെയ്യുന്നു ഒരു ആശയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഗ്രാഹ്യം ധാരാളം ഉദാഹരണങ്ങളാൽ ശക്തിപ്പെടുത്താം നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെടുത്താൻ കഴിയും അതുപോലെ തന്നെ "പഠനത്തിന്റെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം" നോക്കുകയാണെങ്കിൽ അതിനർത്ഥം പഠനം നിങ്ങൾ പഠിക്കുന്ന സന്ദർഭത്തെ ആശ്രയിച്ചിരിക്കുന്നു ശരി ആലോചനാർത്ഥങ്ങൾ സ്ഥാപിക്കപ്പെട്ട അവബോധം ആക്റ്റിവിറ്റി തിയറി മുതലായ വിവാദവിഷയങ്ങൾ പ്രസക്തമാകാൻ തുടങ്ങുന്നത് ഇവിടെയാണ് ഞങ്ങൾ ഇവ പര്യവേക്ഷണം ചെയ്യാൻ പോകുന്നില്ല പക്ഷേ നമ്മൾ തിരിച്ചറിയേണ്ടത് പഠനത്തിൻ്റെ നിരവധി തത്ത്വങ്ങൾ വർഷങ്ങളായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ "വിലയിരുത്തൽ" എന്ന മറ്റൊരു വിഷയത്തിലേക്ക് വരിക എന്താണ് വിലയിരുത്തൽ പ്രകടനത്തിൻ്റെ അളവുകോലാണ് വിലയിരുത്തൽ ഉദാഹരണത്തിന് ഒരു പഠിതാവ് എന്തെങ്കിലും പഠിച്ചുവെന്ന് എനിക്ക് എങ്ങനെ അറിയാനാകും അതിനാൽ പഠനത്തിൻ്റെ അനന്തരഫലമായി അദ്ദേഹം പ്രകടനം നടത്തണം ഈ പ്രകടനം ഒരു പ്രശ്നം പരിഹരിക്കുന്നതോ അവതരണം നടത്തുന്നതോ പോലെയാകാം അത് ലബോറട്ടറിയിൽ ഒരു പരീക്ഷണം നടത്തുന്നതോ ആകാം ഒരു വിദ്യാർത്ഥി എത്രത്തോളം പഠിച്ചുവെന്ന് അളക്കാൻ അത്തരം നിരവധി പ്രവർത്തനങ്ങൾ ഉപയോഗിക്കാം ആരെങ്കിലും ഒരു പരീക്ഷണം പോലെ എന്തെങ്കിലും ചെയ്തുകഴിഞ്ഞാൽ എന്ത് സംഭവിക്കും വിലയിരുത്തൽ എന്നത് മൂല്യനിർണ്ണയത്തിൻ്റെ വ്യാഖ്യാനമാണ് അതിനർത്ഥം വിദ്യാർത്ഥി ഏത് വിധത്തിലാണ് പരീക്ഷണം നടത്തിയതെന്ന് ഇൻസ്ട്രക്ടർ നിരീക്ഷിക്കുകയും ഫലങ്ങൾ നേടുകയും ചെയ്താൽ അയാൾക്ക് ഒരു മാർക്കോ ഗ്രേഡോ നൽകും ഒരു അടയാളമോ ഗ്രേഡോ നൽകുന്നത് മൂല്യനിർണ്ണയമായി കണക്കാക്കുന്നു നിർഭാഗ്യവശാൽ അദ്ധ്യാപന കമ്മ്യൂണിറ്റിയിൽ പോലും ഈ വാക്കുകൾ വിലയിരുത്തലും മൂല്യനിർണ്ണയവും പലതവണ പരസ്പരം മാറി ഉപയോഗിക്കപ്പെടുന്ന പദങ്ങളാണ് അതിനാൽ വിലയിരുത്തലും മൂല്യനിർണ്ണയവും തമ്മിൽ വ്യക്തമായ വ്യത്യാസം ഉണ്ടായിരിക്കണം ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വിദ്യാർത്ഥികൾ അവർ എങ്ങനെ തയ്യാറാക്കുന്നു അവർ എങ്ങനെ അവരുടെ പഠനം ആസൂത്രണം ചെയ്യുന്നു കാരണം ഏതെങ്കിലും സെമസ്റ്ററിൻ്റെ തുടക്കത്തിൽ ഒരു വിദ്യാർത്ഥി പരീക്ഷയിൽ മികച്ച പ്രകടനം നടത്താൻ ആഗ്രഹിക്കുന്നു ഒരു നല്ല ഗ്രേഡ് നേടാൻ അവൻ ആഗ്രഹിക്കുന്നു അയാൾക്ക് എങ്ങനെ ഒരു നല്ല ഗ്രേഡ് ലഭിക്കും ഇത് രൂപകൽപ്പന ചെയ്ത വിവിധ ടെസ്റ്റുകളിൽ അദ്ദേഹം എത്ര നന്നായി പ്രകടനം നടത്തിയെന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഇത് ക്ലാസ് ടെസ്റ്റ് ആകാം അസൈൻമെന്റുകൾ ആകാം അത് ലബോറട്ടറി ആകാം അല്ലെങ്കിൽ അവസാന സെമസ്റ്റർ പരീക്ഷ ആകാം അതിനാൽ എന്ത് സംഭവിക്കുമെന്ന് അയാൾ കണ്ടെത്തണം അല്ലെങ്കിൽ അവർ സ്വയം തയ്യാറാകേണ്ടത് എത്തരത്തിലുള്ള വിലയിരുത്തൽ ഉപകരണങ്ങൾക്കായിട്ടാണന്ന് ടീച്ചർ അവനോട് പറയണം അതിനാൽ പ്രധാനമായും നിങ്ങൾ പ്രധാനപ്പെട്ടതാണെന്ന് കരുതുന്നത് നിങ്ങളുടെ വിലയിരുത്തലുകളിലൂടെ പറയുന്നു കാരണം എല്ലാ വിദ്യാർത്ഥികളും പ്രധാനപ്പെട്ടതായി കരുതുന്ന കാര്യങ്ങളിൽ സമയം ചെലവഴിക്കും അതിനാൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ക്ലാസ്സിലെ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിലൂടെയോ ക്ലാസിലെ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധ്യമായ അവസാന സെമസ്റ്റർ പരീക്ഷകളിൽ ശരിയായ തരത്തിലുള്ള ചോദ്യങ്ങൾ നൽകുന്നതിലൂടെയോ അവരുടെ വിലയിരുത്തലിലൂടെ പഠിക്കാൻ നന്നായി പഠിക്കാൻ വിദ്യാർത്ഥികളെ നയിക്കാൻ അധ്യാപകർക്ക് കഴിയും അതിനാൽ നിങ്ങൾ നിങ്ങളുടെ വിലയിരുത്തൽ മോശമാണെങ്കിൽ വിദ്യാർത്ഥികൾ യാന്ത്രികമായി ചെയ്യും വിദ്യാർത്ഥികളുടെ പഠനവും മോശമായിരിക്കും അതിനാൽ ഒരു വിധത്തിൽ വിലയിരുത്തൽ ഒരു കോഴ്സിൻ്റെ ഘടകങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു പശയാണ് അതാണ് അതിന്റെ ഉള്ളടക്കം പ്രബോധന രീതികളും കഴിവുകളും വികസനവും ശരി അതിനാൽ ചുരുക്കത്തിൽ വിലയിരുത്തൽ വിദ്യാർത്ഥികളുടെ പഠനത്തെ ശരിക്കും നയിക്കുന്നുവെന്ന് നിങ്ങൾക്ക് പറയാം അതിനാൽ ആ പരിധി വരെ വിലയിരുത്തൽ ശരിക്കും പഠനത്തിൻ്റെ കേന്ദ്രമാണ് ഇപ്പോൾ നിങ്ങളുടെ പക്കലുള്ള വിലയിരുത്തൽ തരങ്ങൾ ഏതാണ് ഒരു ഘടനാ വിഷയകമായ വിലയിരുത്തലും ഫോർമേറ്റീവ് അസസ്മെൻ്റ് സംഗ്രഹാത്മക വിലയിരുത്തലും സമ്മേറ്റീവ് അസസ്മെൻ്റ് ഫോർമേറ്റീവ് അസസ്മെൻ്റ് എന്നാൽ നിങ്ങൾ പഠനത്തെ സുഗമമാക്കുന്നതിനുള്ള ഒരു മാർഗമായി വിലയിരുത്തൽ ഉപയോഗിക്കുന്നുവെന്നാണ് അർത്ഥമാക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ ക്ലാസ് മുറിയിൽ ഒരു ചോദ്യം ചോദിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഒരു ക്വിസ് നടത്തുന്നു അതിനായി നിങ്ങൾ മാർക്ക് നൽകുന്നില്ല പക്ഷേ ഇത് അധ്യാപകനും വിദ്യാർത്ഥിക്കും ഒരു ഫീഡ്ബാക്കായി പ്രവർത്തിക്കുന്നു അതാണ് ഞങ്ങൾ ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ മാർക്കിൻ്റെ അർത്ഥത്തിൽ കണക്കിലെടുക്കാത്ത പഠനത്തിൻ്റെ വിലയിരുത്തൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായ വിലയിരുത്തലായി എന്നും കണക്കാക്കപ്പെടുന്നു സംഗ്രഹാത്മക വിലയിരുത്തൽ ആണെങ്കിലും ഒരു പോയിൻ്റ് വരെ അല്ലെങ്കിൽ ഒരു കോഴ്സിൻ്റെ അവസാനം വിദ്യാർത്ഥി എന്താണ് പഠിച്ചതെന്ന് നിർണ്ണയിക്കാൻ നിങ്ങൾ വിലയിരുത്തുന്നു അവിടെയാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ വിദ്യാർത്ഥിയുടെ പ്രകടനം ഗ്രേഡു ചെയ്യുകയോ അടയാളപ്പെടുത്തുകയോ ചെയ്യുന്നത് നിഷ്ഠ പുലർത്തുന്നവർ ആയ ചിലർ വിശ്വസിക്കുന്നത് ഒരിക്കലും സംഗ്രഹാത്മക വിലയിരുത്തൽ ഉണ്ടാകരുത് ഘടനാ വിഷയകമായ വിലയിരുത്തൽ മാത്രമേ ഉണ്ടാകാവൂ എന്നാണ് അതാണ് പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം നിർഭാഗ്യവശാൽ അയാൾ തൃപ്തികരമായി പ്രവർത്തിച്ചാലും ഇല്ലെങ്കിലും ഒരു മാറ്റവും വരാൻ പോകുന്നില്ലെന്ന് വിദ്യാർത്ഥി അറിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ആവശ്യമായ ശ്രമം നടത്തുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യും അവൻ കഴിവുള്ളവനായിരിക്കാം പക്ഷേ അദ്ദേഹം ശ്രമം നടത്തുകയില്ല ഇതും സാർവത്രികമായി നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അതിനാൽ ആ പരിധിവരെ ഘടനാ വിഷയകമായ വിലയിരുത്തൽ തീർച്ചയായും അഭികാമ്യമാണെങ്കിലും നമുക്ക് അതിനെ പൂർണ്ണമായും ആശ്രയിക്കാൻ കഴിയില്ല ഇപ്പോൾ വിലയിരുത്തലിൻ്റെ മറ്റൊരു പ്രധാന സവിശേഷത "മറ്റുളളവയുമായി പൊരുത്തപ്പെടൽ" ആണ് മൂല്യനിർണ്ണയം വിദ്യാഭ്യാസത്തിന്റെ പ്രഖ്യാപിത ഫലങ്ങളുമായി യോജിക്കുന്നതായിരിക്കണം നിങ്ങളുടെ പ്രഖ്യാപിത ഫലങ്ങൾ പിന്നീടുള്ള യൂണിറ്റുകളിൽ ഞങ്ങൾ വളരെ വിശദമായി കാണും ഉദാഹരണത്തിന് ഫലം വിദ്യാർത്ഥിക്ക് ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് കരുതുന്നുവെങ്കിൽ ഇലക്ട്രോണിക്സിൽ പറഞ്ഞാൽ ഒരു പ്രത്യേക പ്രവർത്തനം നടത്താൻ ഒരു സർക്യൂട്ട് രൂപകൽപ്പന ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയണം എന്നാണ് ഇതിനർത്ഥം അതാണ് ലക്ഷ്യം എന്നാൽ യഥാർത്ഥ വിലയിരുത്തലിൽ നിങ്ങൾ ഒരു ഉപകരണത്തിൻ്റെ സിദ്ധാന്തം മാത്രമേ ചോദിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് വിവരിക്കുക അല്ലെങ്കിൽ സർക്യൂട്ടിൻ്റെ പ്രവർത്തനം എന്താണെന്ന് കണ്ടെത്തുക നിങ്ങളുടെ വിലയിരുത്തൽ അതിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ വിലയിരുത്തൽ പ്രഖ്യാപിത ഫലവുമായി പൊരുത്തപ്പെടുന്നില്ല എന്നാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് നിർഭാഗ്യവശാൽ ഇന്ന് നിങ്ങൾ ഭൂരിഭാഗം ടെസ്റ്റ് പേപ്പറുകളോ യൂണിവേഴ്സിറ്റി പരീക്ഷകളോ നോക്കുകയാണെങ്കിൽ മൂല്യനിർണ്ണയവും കോഴ്സിൻ്റെ ഏറ്റവും കുറഞ്ഞത് ആഗ്രഹിക്കുന്ന ഫലങ്ങളും തമ്മിൽ പൊരുത്തപ്പെടുത്തലിൻ്റെ മൊത്തത്തിലുള്ള അഭാവമുണ്ട് അതിനാൽ വിലയിരുത്തലും പ്രഖ്യാപിതഫലങ്ങളും തമ്മിൽ മതിയായ യോജിപ്പ് ഉണ്ടെന്ന് ഉറപ്പാക്കാൻ നിങ്ങളുടെ ടെസ്റ്റ് പേപ്പറുകൾ രൂപകൽപ്പന ചെയ്യുന്നതിന് ആസൂത്രിതമായ ശ്രമം നടത്തണം പിന്നീടുള്ള യൂണിറ്റുകളിൽ ഞങ്ങൾ ഇതിൽ കൂടുതൽ കാണും ഇപ്പോൾ "നിർദ്ദേശം" എന്ന മൂന്നാമത്തെ വിഷയത്തിലേക്ക് വരാം പഠിക്കാനും വളരാനും ആളുകളെ സഹായിക്കുക എന്നതാണ് പ്രബോധനത്തിൻ്റെ ഉദ്ദേശ്യം പിന്നീടുള്ള യൂണിറ്റുകളിൽ നമ്മൾ കാണുന്നതുപോലെ പഠനവും വികാസവും 4 തലങ്ങളിൽ നോക്കാം ഇത് ഒരു വൈജ്ഞാനിക നിലയാണ് ബാധകമാണ് ഇത് ശരിക്കും കോഗ്നിറ്റീവ് നില അഫക്റ്റീവ് നില അല്ല നിങ്ങൾക്ക് കോഗ്നിറ്റീവ് ഡൊമെയ്ൻ അഫക്റ്റീവ് ഡൊമെയ്ൻ സൈക്കോമോട്ടോർ ഡൊമെയ്ൻ ആത്മീയ ഡൊമെയ്ൻ എന്നീ പഠന ഡൊമെയ്നുകൾ ആണെന്ന് പറയാൻ കഴിയും അവയെല്ലാം വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത അളവുകളിൽ പ്രധാനമാണ് പ്രത്യേകിച്ചും അഫക്റ്റീവ് ഡൊമെയ്ൻ വളരെ പ്രധാനമാണെങ്കിലും ഇപ്പോൾ ഡൊമെയ്നിലെ പഠനത്തെ കോഗ്നിറ്റീവ് ഡൊമെയ്നുമായി എങ്ങനെ സംയോജിപ്പിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല അതിനാൽ നിലവിൽ പഠനം പ്രധാനമായും കോഗ്നിറ്റീവ് ഡൊമെയ്നിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ചില കോഴ്സുകൾ ചിലതരം വിഷയങ്ങൾ സൈക്കോമോട്ടോർ ഡൊമെയ്ൻ എന്നിവയും പ്രാധാന്യമർഹിക്കുന്നു തിയേറ്റർ നാടകം അല്ലെങ്കിൽ പെയിന്റിംഗുകൾ സംഗീതം സ്പോർട്സ് തുടങ്ങിയവയെക്കുറിച്ചുള്ള കോഴ്സുകൾ പോലെ സൈക്കോമോട്ടോർ ഡൊമെയ്നും പ്രാധാന്യമർഹിക്കുന്നു പഠനം തീർച്ചയായും പ്രബോധനമില്ലാതെ സംഭവിക്കാം എന്നതാണ് ആരും കൈ നീട്ടേണ്ടതില്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതം നയിക്കുകയാണെങ്കിൽ ഒരുപക്ഷേ നിങ്ങൾ പുറം ലോകവുമായി നിരന്തരം ഇടപഴകുകയും നിങ്ങൾ പഠിക്കുകയും ചെയ്യുന്നു എന്നാൽ ഒരു വിദ്യാർത്ഥിയോ പഠിതാവോ ചില ഫലങ്ങൾ നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിർദ്ദേശം പ്രധാനമാണ് ഇപ്പോൾ ഇൻസ്ട്രക്ഷണൽ ഡിസൈനർമാർ ഞങ്ങൾ ഇൻസ്ട്രക്ഷൻ എന്ന് വിളിക്കുന്ന ബാഹ്യഈവൻ്റുകളുടെ രൂപകൽപ്പനയിൽ പഠന തത്ത്വങ്ങൾ പ്രയോഗിക്കുന്നു അതിനാൽ ഇത് സാന്ദർഭികമായി വിടുന്നതിനു പകരം കുറച്ച് അറിവുള്ള ഒരു അദ്ധ്യാപകന് ഒരു ഇൻസ്ട്രക്ഷണൽ ഡിസൈനർ ആകാം അദ്ദേഹം ബാഹ്യഈവൻ്റുകൾ ആസൂത്രണം ചെയ്യുന്നു ഏത് തരം ഈവൻ്റുകളെ പറ്റിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഈവൻ്റുകൾ ചില പുതിയ അറിവുകൾ പ്രകടിപ്പിക്കുകയോ ക്വിസ് നടത്തുകയോ വിദ്യാർത്ഥികളുമായി പരസ്പരം ചർച്ച ചെയ്യാൻ ആവശ്യപ്പെടുകയോ പോലെയാകാം അല്ലെങ്കിൽ ക്ലാസിലെ ഒരു പ്രശ്നം വ്യക്തിഗതമായി പരിഹരിക്കാൻ വിദ്യാർത്ഥിയോട് ആവശ്യപ്പെടുക ഇവയെല്ലാം പ്രബോധന ഈവൻ്റുകളാണ് ഒരു ഇൻസ്ട്രക്ഷണൽ ഡിസൈനർ അല്ലെങ്കിൽ അധ്യാപകൻ ഈ ഈവൻ്റുകൾ ശരിയായ ക്രമത്തിൽ സംഘടിപ്പിക്കും പ്രബോധന രൂപകൽപ്പന അതാണ് പ്രബോധന രൂപകൽപ്പനയുടെ ചില തത്ത്വങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമാണ് അവ എന്തു ചെയ്യും പ്രബോധന രൂപകൽപ്പനയുടെ തത്ത്വങ്ങൾ നിങ്ങൾ മനസിലാക്കുന്നുവെങ്കിൽ പരിശീലനവും ഫീഡ്ബാക്കും എപ്പോൾ ഏറ്റവും ഫലപ്രദമാകുമെന്ന് തീരുമാനിക്കാൻ അവ ഇൻസ്ട്രക്ടറെ സഹായിക്കും ക്ലാസ് റൂമിലെ ഏത് ഘട്ടത്തിലാണ് ആശയവിനിമയം നടത്തേണ്ടത് അല്ലെങ്കിൽ എപ്പോൾ നിങ്ങൾ വിദ്യാർത്ഥിയെ എന്തെങ്കിലും പരിശീലിപ്പിക്കാൻ പ്രേരിപ്പിക്കണം എപ്പോഴാണ് നിങ്ങൾ ഫീഡ്ബാക്ക് സ്വീകരിക്കുന്നത് ഏറ്റവും ഫലപ്രദമാകുന്നതിന് നിങ്ങൾ ശരിയായ തരത്തിലുള്ള വ്യവഹാരം തിരഞ്ഞെടുക്കണം എപ്പോഴാണ് വിദ്യാർത്ഥികൾ ഗ്രൂപ്പുകളിലായി പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചില വ്യായാമങ്ങൾ ഗ്രൂപ്പുകളിലാണ് ചെയ്യുന്നത് ചിലത് ഗ്രൂപ്പ് പ്രവർത്തനത്തിന് അനുയോജ്യമല്ല അതിനാൽ വിദ്യാർത്ഥികളെ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുത്തുന്നത് എപ്പോഴാണ് പ്രയോജനകരമെന്ന് ഒരു ഇൻസ്ട്രക്ടർ തീരുമാനിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഉയർന്ന ഓർഡർ പഠന കഴിവുകൾ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഇത് വീണ്ടും വിശദീകരിക്കും വിവിധ ഘട്ടങ്ങളിലൂടെ നിങ്ങൾ എങ്ങനെ വിദ്യാർത്ഥിയെ കൊണ്ടുപോകുന്നു അതിലൂടെ ഉയർന്ന ഓർഡർ പഠന നൈപുണ്യങ്ങൾ നേടാനും എന്താണ് മുൻവ്യവസ്ഥകൾ അവ എങ്ങനെ ക്രമീകരിക്കുന്നു പ്രബോധന രൂപകൽപ്പനയുടെ ഈ തത്ത്വങ്ങൾ പ്രബോധന സാമഗ്രികളുടെ നിർമ്മാതാക്കളെ സഹായിക്കും ഒരു ഇൻസ്ട്രക്ടർ ഉപയോഗിക്കുന്നതാണ് നിർദ്ദേശ സാമഗ്രികൾ കരിക്കുലം മെറ്റീരിയൽ ഡവലപ്പർമാർ അതാണ് പഠിതാക്കളും വെബ് അധിഷ്ഠിത കോഴ്സ് ഡിസൈനർമാരും നോളജ് മാനേജുമെന്റ് സിസ്റ്റം ഡിസൈനർമാരും ഉപയോഗിക്കാൻ പോകുന്ന മെറ്റീരിയൽ നിർദ്ദേശ രൂപകൽപ്പനയുടെ ഈ തത്ത്വങ്ങൾ എല്ലാവർക്കും പ്രയോജനകരമാകും എന്താണ് പ്രബോധന രൂപകൽപ്പന സിദ്ധാന്തം വ്യക്തമായ മാർഗ്ഗനിർദ്ദേശവും ആളുകളെ പഠിക്കാനും വികസിപ്പിക്കാനും എങ്ങനെ മികച്ച രീതിയിൽ സഹായിക്കാമെന്നും വാഗ്ദാനം ചെയ്യുന്ന ഒരു സിദ്ധാന്തമാണിത് അതിനാൽ നമ്മൾ കാണുന്നതുപോലെ നിരവധി ഡിസൈൻ സിദ്ധാന്തങ്ങളുണ്ട് അവർ വ്യക്തമായ മാർഗ്ഗനിർദ്ദേശവും ആളുകളെ എങ്ങനെ പഠിക്കാനും വികസിപ്പിക്കാനും മികച്ച രീതിയിൽ സഹായിക്കാമെന്നും വാഗ്ദാനം ചെയ്യുന്നു ഇത് ഡിസൈൻ ഓറിയന്റഡ് സിദ്ധാന്തമാണ് ഒരു ഡിസൈൻ ഓറിയന്റഡ് സിദ്ധാന്തം എന്താണെന്ന് ഞങ്ങൾ ഇപ്പോൾ കാണും കൂടാതെ ഈ സിദ്ധാന്തങ്ങൾ പ്രബോധന രീതികളും ആ രീതികൾ ഉപയോഗിക്കേണ്ടതും ഉപയോഗിക്കരുതാത്തതുമായ സാഹചര്യങ്ങളും തിരിച്ചറിയും എല്ലാ തരത്തിലുള്ള നിർദ്ദേശ രീതികളും എല്ലാ വ്യവസ്ഥകളിലും ഉപയോഗിക്കരുത് അതിനാൽ ഒരു രീതി പ്രയോഗിക്കുന്നതിന് ശരിയായ തരത്തിലുള്ള സാഹചര്യം തിരഞ്ഞെടുക്കുന്നതിന് ഒരു നിർദ്ദേശ രൂപകൽപ്പന സിദ്ധാന്തം നിങ്ങളെ സഹായിക്കും ഒരു കാര്യം ഓർമ്മിക്കേണ്ടതാണ് നിർദ്ദേശിക്കപ്പെടുന്ന ഏതൊരു രീതിയും നിർണ്ണായകം എന്നതിനേക്കാൾ സംഭവ്യം മാത്രമാണ് കാരണം ഞങ്ങൾ ശ്രദ്ധിച്ചതുപോലെ പഠനം ഒരുപാട് ഘടകങ്ങളുടെ പ്രവർത്തനമാണ് ഇത് അസാധ്യമാണ് ഓരോ വിദ്യാർത്ഥിയും മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനാണ് ഒരു വ്യക്തിക്ക് ഫലിക്കുന്നത് മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ഫലിക്കില്ല എന്നാൽ ഈ പരിധിവരെ നിങ്ങൾ നിർദ്ദേശിക്കുന്ന ഏതെങ്കിലും രീതികൾ ഈ നിർദ്ദേശരീതി പിന്തുടരുകയാണെങ്കിൽ വിദ്യാർത്ഥി പഠന സാധ്യത മെച്ചപ്പെടുമെന്ന് മാത്രമേ പറയാൻ കഴിയൂ അതിനാൽ എല്ലാം സംഭവ്യം ആണ് എന്താണ് "ഡിസൈൻ സിദ്ധാന്തങ്ങൾ" ഡിസൈൻ സിദ്ധാന്തങ്ങൾ ഞങ്ങൾ വിവരണാത്മക സിദ്ധാന്തങ്ങൾ എന്ന് വിളിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിൽ ഞങ്ങൾ ചെയ്യുന്ന മിക്ക ഗവേഷണങ്ങളും പ്രധാനമായും വിവരണാത്മക സിദ്ധാന്തമാണ് വിവരണാത്മക സിദ്ധാന്തം അർത്ഥമാക്കുന്നത് 'എ' പ്രഭാവത്തിലേക്ക് നയിക്കുന്ന ഒരു കാരണമാണ് 'ബി' നിങ്ങൾ സങ്കൽപിച്ചേക്കാം തുടർന്ന് പരീക്ഷണാത്മകമോ സൈദ്ധാന്തികമോ ആയി നിങ്ങൾ തെളിയിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാം എ ബിയിലേക്ക് നയിക്കുന്നു അല്ലെങ്കിൽ ഇല്ല മാത്രമല്ല ഗവേഷണങ്ങളിൽ ഭൂരിഭാഗവും അത്തരത്തിലുള്ളതാണ് ഡിസൈൻ സിദ്ധാന്തം പ്രകൃതിയിൽ നിർദ്ദേശിതമാണ് അതിനാൽ എന്ത് സംഭവിക്കും നിർദ്ദേശകം എന്നതിനർത്ഥം നിങ്ങൾ ഇത് ചെയ്താൽ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താം ഒരു നിർദ്ദേശപരമായ കാര്യമാണ് ഞങ്ങൾ അർത്ഥമാക്കുന്നത് അതിനാൽ ആ പരിധിവരെ എല്ലാ നിർദ്ദേശ ഡിസൈൻ സിദ്ധാന്തങ്ങളും പ്രകൃതിയിലെ ഡിസൈൻ സിദ്ധാന്തങ്ങളാണ് വ്യത്യസ്ത ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് എന്ത് രീതികൾ ഉപയോഗിക്കണമെന്ന് പരിശീലകർക്ക് നേരിട്ട് മാർഗ്ഗനിർദ്ദേശം നൽകാനാണ് അവ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഫലങ്ങൾ ഉറപ്പല്ല ഒരു ഡിസൈൻ സിദ്ധാന്തം എപ്പോഴാണ് നല്ലതെന്ന് നിങ്ങൾ കരുതുന്നുത് ഒരു സിദ്ധാന്തം മറ്റൊരു സിദ്ധാന്തവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലക്ഷ്യങ്ങൾ മികച്ച നേട്ടത്തിലേക്ക് നയിക്കുന്നുവെങ്കിൽ അത് മികച്ച രീതിയിൽ രൂപകൽപ്പന ചെയ്ത സിദ്ധാന്തമാണെന്ന് ഞങ്ങൾ കരുതുന്നു അതിനാൽ മുൻഗണനയാണ് അളവ് എന്ന് നിങ്ങൾ കരുതുന്നു അതായത് ഒരു പ്രത്യേക സിദ്ധാന്തത്തെ മറ്റൊന്നിനേക്കാൾ ഇഷ്ടപ്പെടുന്നു ഡിസൈൻ സിദ്ധാന്തങ്ങളുടെ സ്വഭാവം അതാണ് ഇപ്പോൾ ഇത് ഡിസൈൻ സിദ്ധാന്തത്തിന്റെ ഒരു ഉദാഹരണമാണ് അത് എന്താണ് പറയുന്നതെന്ന് അത് വളരെ വ്യക്തമായി കാണാമെങ്കിലും വ്യക്തമായ ഘട്ടങ്ങളിലൂടെ പ്രസ്താവിച്ചിരിക്കുന്നു വ്യക്തമായ വിവരങ്ങൾ വിദ്യാർത്ഥിക്ക് നൽകണം ലക്ഷ്യങ്ങൾ ആവശ്യമായ അറിവ് പ്രതീക്ഷിച്ച പ്രകടനങ്ങൾ എന്നിവയുടെ വിവരണങ്ങളും ഉദാഹരണങ്ങളും അതാണ് ശ്രദ്ധാപൂർവ്വമായ പരിശീലനം പഠിതാക്കൾക്ക് പഠിക്കേണ്ടതെന്തും സജീവമായും പ്രതിഫലനപരമായും ഇടപഴകാനുള്ള അവസരങ്ങൾ ഇത് വളരെ പ്രധാനമാണ് നിർഭാഗ്യവശാൽ ഞങ്ങളുടെ നിലവിലെ സമ്പ്രദായങ്ങളിൽ പഠിതാക്കൾക്ക് സജീവമായും പ്രതിഫലനപരമായും ഇടപഴകാൻ മതിയായ അവസരം ഞങ്ങൾ നൽകുന്നില്ല വിവര സംപ്രേക്ഷണം അല്ലെങ്കിൽ വിവര കൈമാറ്റം എന്നിവയിൽ ഞങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഒപ്പം പഠിതാവിൻ്റെ ഇടപഴകൽ അവസരങ്ങൾക്ക് വിടുകയോ അല്ലെങ്കിൽ അവർ സ്വയം ചെയ്യുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയോ ചെയ്യുന്നു ഇത് ഒരു മാർഗനിർദേശ പ്രവർത്തനമല്ല നിങ്ങൾ അത് ക്ലാസ് മുറിയിലേക്ക് കൊണ്ടുവന്ന നിമിഷം മുതൽ വളരെയധികം പരിശ്രമിക്കേണ്ടതുണ്ട് അതിനായി ഗണ്യമായ സമയമെടുക്കും അതിനാൽ പതിവ് ക്ലാസ് റൂം ജോലികളുമായി എങ്ങനെ സംയോജിപ്പിക്കാമെന്ന് ചിന്തിക്കുന്ന അഭ്യാസം ഒരു പ്രധാന വെല്ലുവിളിയാണ് മൂന്നാമത്തെ പോയിൻ്റ് വിവരദായക ഫീഡ്ബാക്കാണ് അവരുടെ കൂടുതൽ ഫലപ്രദമായി മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന പ്രകടനത്തെക്കുറിച്ച് വ്യക്തവും സമഗ്രവുമായ ഉപദേശം അതായത് നിരന്തരമായ ഫീഡ്ബാക്ക് നൽകേണ്ടതുണ്ട് ഒരിക്കൽ കൂടി അത് ഒരു വെല്ലുവിളിയാണ് നിങ്ങൾക്ക് ഓരോ വ്യക്തിക്കും പ്രത്യേകം ഈ ഫീഡ്ബാക്ക് നൽകാൻ കഴിയില്ല അതിനാൽ പരമാവധി ആളുകൾക്ക് ഫീഡ്ബാക്ക് നൽകുന്ന ഒരു രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കണം ഉദാഹരണത്തിന് ട്യൂട്ടോറിയലുകൾ ഈ പ്രക്രിയയിൽ സഹായിക്കുന്നു ശക്തമായ ആന്തരികവും ബാഹ്യവുമായ പ്രചോദനം അതിനർത്ഥം പ്രതിഫലം ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ അവ വളരെ താൽപ്പര്യമുള്ളതും സ്വയം ഇടപഴകുന്നതുമായതിനാലോ അല്ലെങ്കിൽ പഠിതാവിനെ ബാധിക്കുന്നതായ മറ്റ് നേട്ടങ്ങൾ നൽകുന്നതിനാലോ ആണ് അതിൻ്റെ അർത്ഥമെന്തെന്നാൽ ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും എങ്ങനെയെങ്കിലും പഠിതാവിന് താൽപ്പര്യമുള്ളതായിരിക്കണം ഒന്നുകിൽ അതെ ഇത് അൽപ്പം വെല്ലുവിളിയായി അദ്ദേഹം പരിഗണിക്കുന്നു അത്തരമൊരു കാര്യത്തിൽ പ്രവർത്തിക്കാൻ പഠിതാവ് ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതോ എന്തെങ്കിലും പഠിക്കുന്നതോ തനിക്ക് യഥാർഥ താൽപ്പര്യമുള്ള കാര്യങ്ങളുടെ നേട്ടത്തിലേക്ക് നയിക്കുമെന്ന് അദ്ദേഹം കരുതുന്നു അതിനാൽ ഇവ രണ്ടും അന്തർലീനവും ബാഹ്യവുമായ പ്രചോദനങ്ങൾ വിദ്യാർത്ഥിക്കായി ക്രമീകരിക്കേണ്ടതുണ്ട് ഒരു ചെറിയ കാര്യം ക്ലാസ്സിൽ ആദ്യം പ്രശ്നം പരിഹരിക്കുന്നവർക്ക് പ്രതിഫലം നൽകാമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും എന്നതാണ് നിങ്ങൾ ഒരു ചെറിയ പ്രതിഫലം നൽകുമെന്ന് ഞങ്ങൾ പറയട്ടെ അത് ചിലപ്പോൾ വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കും പ്രബോധന രൂപകൽപ്പനയുടെ ചില സിദ്ധാന്തങ്ങൾ ഇതിനെ നേരിട്ടുള്ള സമീപനം ചർച്ചാ സമീപനം പരീക്ഷണാത്മക സമീപനം പ്രശ്ന അടിസ്ഥാന സമീപനം സിമുലേഷൻ സമീപനം എന്ന് വിളിക്കുന്നു ഇതെല്ലാം പ്രബോധന രൂപകൽപ്പനയുടെ സിദ്ധാന്തങ്ങളാണ് അവയിൽ ചിലത് നിർദ്ദേശത്തെക്കുറിച്ചുള്ള മൊഡ്യൂളിനിടെ ഞങ്ങൾ നോക്കും ഇപ്പോൾ ഈ യൂണിറ്റിന്റെ അവസാനത്തിൽ ഞങ്ങൾ പരിചിതമായ മൂന്ന് വാക്കുകൾ പരിശോധിച്ചു കുറച്ചുകാലമായി ഞങ്ങൾ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നു അതായത് പഠനം വിലയിരുത്തൽ നിർദ്ദേശം ഈ വാക്കുകൾക്ക് വളരെ വ്യക്തമായ അർത്ഥം നൽകാൻ ഞങ്ങൾ ശ്രമിച്ചു ഇപ്പോൾ അസൈൻമെന്റുകളിലേക്ക് വരുന്നു നിങ്ങളുടെ അനുഭവങ്ങളിൽ കൂടുതൽ ബന്ധിപ്പിക്കാൻ കഴിയുന്ന പഠന സിദ്ധാന്തങ്ങളിൽ ഏതാണ് എന്ന് നിങ്ങൾ ഒരു ചെറിയ കുറിപ്പ് എഴുതുക എന്തുകൊണ്ട് പരമാവധി 250 വാക്കുകൾ എഴുതാം രണ്ടാമത്തേത് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിലെ വിലയിരുത്തലിനെക്കുറിച്ച് നാം ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ട് എങ്ങനെ മൂല്യനിർണ്ണയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ എവിടെ പ്രതിഫപ്പിലിക്കും എവിടെയാണ് ആസൂത്രണം ചെയ്യുന്നത് ഒരിക്കൽ കൂടി കുറച്ച് പോയിന്റുകൾ 250 വാക്കിൽ കവിയാതെ എഴുതുക നിങ്ങൾ പഠിപ്പിച്ചതോ അനുഭവിച്ചതോ ആയ കോഴ്സുകളിലെ വിദ്യാർത്ഥികൾ മികച്ച പഠനത്തിലേക്ക് നയിച്ചതായി നിങ്ങൾക്ക് തോന്നിയ പ്രബോധനത്തിനുള്ള നിങ്ങളുടെ സമീപനങ്ങളുടെ രണ്ട് ഉദാഹരണങ്ങൾ നൽകുക അതിനാൽ നിങ്ങൾ നിരവധി തവണ പഠിപ്പിച്ച നിങ്ങളുടെ സ്വന്തം കോഴ്സിൽ നിന്ന് രണ്ട് ഉദാഹരണങ്ങൾ എടുത്ത് വിദ്യാർത്ഥികൾ നന്നായി പഠിച്ചുവെന്ന് പിന്തുടർന്ന് നിങ്ങൾ ചിന്തിച്ചതിൽ നിന്ന് ഒരു ഉദാഹരണം എടുക്കാൻ ശ്രമിക്കുക മികച്ച പഠനത്തിന് ചില തെളിവുകൾ നൽകുന്ന ഓരോ ഉദാഹരണത്തിനും പരമാവധി 500 വാക്കുകൾ എഴുതുക ഇത് നിങ്ങളുടെ മാത്രം കാഴ്ചപ്പാടല്ല നിങ്ങൾ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾ നന്നായി പഠിച്ചുവെന്ന് നിങ്ങൾ കരുതുന്നതിന് പക്ഷേ ചില തെളിവുകൾ നൽകേണ്ടിവരും ഇപ്പോൾ നാം അടുത്ത യൂണിറ്റിലേക്ക് പോകുമ്പോൾ വിദ്യാർത്ഥികളെ കേന്ദ്രീകൃതമാക്കുന്ന വിദ്യാഭ്യാസ ഫലങ്ങളുടെയും ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസത്തിൻ്റെയും സവിശേഷതകൾ മനസിലാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു ആദ്യ യൂണിറ്റിൽ ഞങ്ങൾ പറഞ്ഞതുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന മാറ്റം വിദ്യാഭ്യാസം വിദ്യാർത്ഥികേന്ദ്രീകൃതമാക്കുക എന്നതാണ് അതിനാൽ ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസത്തെ വിദ്യാർത്ഥികേന്ദ്രീകൃതമാക്കുന്ന വിദ്യാഭ്യാസമായി അടുത്തതായി രണ്ട് യൂണിറ്റുകളിലൂടെ സ്ഥാപിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു